ഫ്രാക്ചർ മെക്കാനിക്സ് അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയ്ക്കായി ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയായിരുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ക്രാക്ക് ഗ്രോത്തിന്റെ മെക്കാനിസം ഫാറ്റിഗ് ആണ് നിങ്ങൾ ശരിക്കും ഫാറ്റിഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ലോ സൈക്കിൾ ഫാറ്റിഗ്ഗും മറ്റൊന്ന് ഹൈ സൈക്കിൾ ഫാറ്റിഗ്ഗുമാണ് ഹൈ സൈക്കിൾ ഫാറ്റിഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഒരു ക്രാക്ക് ഇനിഷ്യഷൻ ക്രാക്ക് ഗ്രോത്ത് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ എന്നിവയുണ്ട് ലോ സൈക്കിൾ ഫാറ്റിഗിന്റെ കാര്യത്തിൽ സ്ട്രെസ് ലെവലുകൾ വളരെ ഉയർന്നതാണ് 1000 സൈക്കിളുകൾക്കുള്ളിൽ കംപോണൻറ്സ് ഫൈയിൽ ആകും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് കൂടുതൽ ഉപയോഗപ്രദമാകില്ല ഹൈ സൈക്കിൾ ഫാറ്റിഗിന്റെ കാര്യത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ഉപയോഗിക്കുമോ എന്ന് നമുക്ക് കണ്ടെത്താനാകും ഫാറ്റിഗ് ലോഡിംഗിന് വിധേയമായ സ്ട്രാക്ച്ചറുകളിൽ NDT രീതിയിൽ ഒരു ക്രാക്ക് കണ്ടെത്തിയാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരാൾ അറിഞ്ഞിരിക്കണം എന്നതാണ് പ്രശ്നം എന്തൊക്കെയാണ് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ അവ കംപോണൻറ് അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് സുരക്ഷിതമാണോ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂയിൽ ഇത് വളരെ പ്രധാനമാണ് സുരക്ഷിതമാണെങ്കിൽ എത്ര കാലം ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ സംഭവിക്കുന്നതിനുമുമ്പ് കംപോണൻറ് ഉപേക്ഷിക്കാനോ മെഷീൻ നിർത്താനോ കഴിയുന്ന തരത്തിൽ ക്രാക്ക് ഗ്രോത്ത് നിരീക്ഷിക്കാൻ കഴിയുമോ നോക്കൂ നമ്മൾ നേരത്തെ കണ്ടു സിംപിൾ ടെൻസൈൽ ലോഡിംഗിൽ നിന്ന് കംബൈൻഡ് ലോഡിംഗിലേക്ക് മാറിയപ്പോൾ ഫൈയില്യർ അനാലിസിസ്നായി സിംപിൾ ടെൻഷൻ ടെസ്റ്റിൽ നിന്നുള്ള റിസൾട്ട് നമ്മൾ തുടർന്നും ഉപയോഗിക്കും നമുക്ക് ഇത് കൺവെൻഷണൽ ഡിസൈൻ അപ്പ്രോച്ചുകളിൽ കംബൈൻഡ് ലോഡിംഗിനായി ഉപയോഗിക്കാം നമ്മൾ ഫാറ്റിഗ് ലോഡിഗിൽ ഗ്രേജ്യുവേറ്റഡ് ആയതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സൈക്ലിക്കൽ ലോഡിന് വിധേയമായ സ്ട്രാക്ച്ചർ നമുക്ക് പഠിക്കാം ഇപ്പോൾ ചോദ്യം ഇതാണ് ക്രാക്ക് എങ്ങനെ ഗ്രോ ആകുമെന്നു നിങ്ങൾ അറിയണം കൺവെൻഷണൽ ഫാറ്റിഗ് ടെസ്റ്റിന്റെ ലാകുന അതിനാൽ ആദ്യത്തെ പ്രശ്നം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് കൺവെൻഷണൽ ഫാറ്റിഗ് ടെസ്റ്റിൽ നിന്നുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് വിശദീകരിക്കാമോ അത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നല്ലേ ഫാറ്റിഗ് ടെസ്റ്റിൽഫാറ്റിഗ് ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസം കാരണം ഇൻഹെറിന്റ ഫ്ളോസ് വളരുകയും ക്രിട്ടിക്കൽ ലെവലിലെത്തുകയും അത് ഫ്രാക്ചർലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത് തികച്ചും ശരിയാണ് എന്നാൽ ഫാറ്റിഗ് ടെസ്റ്റ് എങ്ങനെ നടത്തുന്നു നിങ്ങൾ ഇൻഡ്യൂറൻസ് ലിമിറ്റ്സ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഇൻഡ്യൂറൻസ് ലിമിറ്റ്സ് എന്ന ആശയം തികച്ചും ഉപയോഗപ്രദമായിരുന്നു 10 പവർ 7 സൈക്കിളുകളോ അതിൽ കൂടുതലോ ഉള്ള ലൈഫിന് അനുവദിച്ചിരിക്കുന്ന സൈക്ലിക്കൽ സ്ട്രെസ് ലെവൽ എന്താണ് ഞാൻ സൂചിപ്പിച്ചിരുന്നു എല്ലാ കംപോണൻന്റ്സ്കളും ഒടുവിൽ ഫൈയിൽ ആകും ഏതൊരു മെറ്റീരിയലിനും ഒരു ഇൻഡ്യൂറൻസ് ലിമിറ്റ്സ് പോലെ വേറെ ഒന്നുമില്ലെന്ന് ഏറ്റവും പുതിയ ഗവേഷണം കാണിക്കുന്നു ഇത് പരീക്ഷണാത്മകമായി പ്രകടമാക്കി എന്നിരുന്നാലും പ്രായോഗിക കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ലൈഫ് 10 പവർ 7 സൈക്കിളുകൾക്കപ്പുറമാണെങ്കിൽ ഇത് മതിയാകും നിങ്ങളുടെ കംപോണൻറ്സ് ഡിസൈൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇൻഡ്യൂറൻസ് ലിമിറ്റ്സ് ഉപയോഗിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രാക്ക് ഗ്രോത്ത് കണ്ടെത്തുന്നതിനോ നിരീക്ഷിക്കുന്നതിനോ ഒരു ശ്രമവും നടക്കാത്തതിനാൽ ക്രാക്ക് ഗ്രോത്തിനോ ഇൻസ്പെക്ഷൻ ഇന്റെർവെൽസിനോ S N ഡയഗ്രാമിന് ഉത്തരം നൽകാൻ കഴിയില്ല ഇത് വളരെ പ്രധാനമാണ് സൈക്ലിക്കലി വേരിയിങ് സ്ട്രെസ് ലെവലുകളെക്കുറിച്ച് നിങ്ങൾ അറിയും എന്താണ് എക്സ്പെക്റ്റെഡ് ലൈഫ് കാരണം നിങ്ങൾ ശേഖരിക്കുന്ന ഒരേയൊരു വിവരങ്ങൾ അതാണ് നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈക്ലിക്കൽ ലോഡ് പ്രയോഗിക്കുമ്പോൾ ക്രാക്കുണ്ടെങ്കിൽ ലൈഫിന്റെ ശേഷിക്കുന്ന കാലയളവ് എന്താണ് നിങ്ങൾക്ക് ഫാറ്റിഗ് ടെസ്റ്റിൽ നിന്ന് അറിയാൻ കഴിയില്ല കാരണം അത്തരം വിവരങ്ങൾ ഒട്ടും രേഖപ്പെടുത്തിയിട്ടില്ല അത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ സമഗ്രമായ പരീക്ഷണ രീതികളിൽ ഉത്തരം നൽകേണ്ടതുണ്ട് Crack Growth Curve ക്രാക്ക് ഗ്രോത്ത് കർവ് ഏതുതരം പരീക്ഷണത്തിനാണ് ആളുകൾ ശ്രമിച്ചത് ക്രാക്ക് ഗ്രോത്ത് കർവ് എന്നത് നേടാൻ ആളുകൾ ശ്രമിച്ചു ഇതിൽ അവർ ചെയ്യുന്നത് ഫാറ്റിഗ് ലോഡ് ചെയ്ത ഫാറ്റിഗ് ടെസ്റ്റിംഗിനായി അവർ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ എടുക്കുന്നു ക്രാക്ക് നിരീക്ഷിക്കുന്നത് NDT രീതികളാണ് അതിനാൽ ഇവിടത്തെ പ്രധാന പ്രശ്നം ടെസ്റ്റ് നടത്തുമ്പോൾ ക്രാക്ക് എങ്ങനെ ഗ്രോ ചെയ്യുന്നുവെന്ന് കാണാനുള്ള ശ്രമവും നിങ്ങൾ നടത്തുന്നു എന്നതാണ് അതിനായ് നിങ്ങൾ അഡിഷണൽ ഡാറ്റ ശേഖരിക്കുന്നു എങ്ങനെയാണ് ഫാറ്റിഗ് ലോഡിംഗ് ചെയ്യുന്നത് ഫാറ്റിഗ്സ് ടെസ്റ്റിലെന്നപോലെ ഫാറ്റിഗ് ലോഡിംഗ് പൂർണ്ണമായും റിവേഴ്സ്ഡ് അല്ല എന്നാൽ ലോവർ ലോഡ് ഈ ടെസ്റ്റുകളിൽ 0 ആയി സൂക്ഷിക്കുന്നു അതും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങൾ എന്തു ചെയ്യുന്നു വിവിധ ലോഡുകൾക്കായി എക്സ്പിരിമെൻറ് ആവർത്തിക്കുകയും ക്രാക്ക് ലെങ്ത് വേഴ്സസ് നമ്പർ ഓഫ് സൈക്കിൾസ് എന്നിവ പ്ലോട്ട് ചെയ്യുക അടിസ്ഥാനപരമായി കാണുക നിങ്ങൾ ഒരു വോളുമിനസ് ഡാറ്റ ശേഖരിക്കുക ഒരൊറ്റ മെറ്റീരിയലിനായി നിങ്ങൾ ലോഡ് ആംപ്ലിറ്റ്യൂഡ് മാറ്റിക്കൊണ്ടിരിക്കും ഓരോ ലോഡ് ആംപ്ലിറ്റ്യൂഡിനും നിങ്ങൾക്ക് വ്യത്യസ്ത തരം ക്രാക്ക് ഗ്രോത്ത് കർവ് ഉണ്ടാകും ഈ ഡാറ്റയെ നിങ്ങൾ എങ്ങനെ അർത്ഥവത്തായ രീതിയിൽ ഉപയോഗിക്കും എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി ദയവായി ഈ ഗ്രാഫ് വരയ്ക്കുക നിങ്ങൾക്ക് ഇവിടെയുള്ളത് x ആക്സിസിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് എലാപ്സ്ഡ് സൈക്കിൾസ് കാണാൻ കഴിയും Y ആക്സിസിൽ നിങ്ങൾക്ക് ഫാറ്റിഗ് ക്രാക്ക് ലെങ്ത് മില്ലിമീറ്ററിൽ കാണാൻ കഴിയും നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് സൈക്കിൾസിനുള്ളിൽ ക്രാക്ക് വലിയ അളവിൽ ഗ്രോ ചെയ്യുന്നു ഇത് വ്യക്തമായും ഉയർന്ന ലോഡിനുള്ളതാണ് അത് ഡെൽറ്റ P ഈക്വൽ ടു 44 1 കിലോ ന്യൂട്ടൺ ആയി നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ഗ്രാഫ് 31 2 കിലോ ന്യൂട്ടണുകൾക്കുള്ളതാണ് അതിനാൽ ഡെൽറ്റ P യുടെ വാല്യൂ ചെറുതായിരിക്കുമ്പോൾ ക്രാക്ക് ഗ്രോത്തിന് കൂടുതൽ സമയം എടുക്കും വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഈ ഡാറ്റാ പോയിന്റുകൾ ഞാൻ വരച്ചുവെന്നതും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അടുത്ത സെറ്റ് ഗ്രാഫുകൾ കണ്ടുകഴിഞ്ഞാൽ അത് വ്യക്തമാകുന്നതിന് എനിക്ക് ഒരു കാരണമുണ്ട് ചെറിയ ലോഡുകൾക്കായി നിങ്ങൾക്ക് ഗ്രാഫുകൾ ഉണ്ട് 22 3 കിലോ ന്യൂട്ടൺ 17 8 കിലോ ന്യൂട്ടൺ അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഡെൽറ്റ P യുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി ഒരൊറ്റ മെറ്റീരിയലിനായി നിങ്ങൾക്ക് വ്യത്യസ്ത ക്രാക്ക് ഗ്രോത്ത് കർവ് ലഭിക്കും നിങ്ങൾക്കറിയാമോ ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഒരൊറ്റ മെറ്റീരിയലിനായി നിങ്ങൾക്ക് വളരെയധികം ഗ്രാഫുകൾ ലഭിക്കും അവയിൽ നാലെണ്ണം മാത്രമാണ് ഞാൻ കാണിച്ചത് നിങ്ങൾ ഡെൽറ്റ P മൂല്യം മാറ്റുകയാണെങ്കിൽ അവയിൽ പലതും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് ക്രാക്ക് ഗ്രോത്ത് എന്നത് സൈക്ലിക്കൽ ലോഡിന്റെ പ്രവർത്തനമാണ് ഒപ്പം ക്രാക്കിന്റെ ലെങ്തും ഒരു മെറ്റീരിയലിനായി നിങ്ങൾക്ക് വളരെയധികം ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ കണക്കുകൂട്ടലിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ചോദ്യം ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാമോ സ്ട്രെസും സ്ട്രെയിനും എന്ന ആശയം തുടക്കത്തിൽ എങ്ങനെ വികസിപ്പിച്ചെടുത്തുവെന്ന് ആളുകൾ ഐസോട്രോപിക് അതിനായി മെറ്റീരിയലിന്റെ ടൂൾസ് എടുത്തു ഒരൊറ്റ മെറ്റീരിയലിനായി അവർ ഫോഴ്സ് എലോംഗേഷൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ലെങ്തിനെ ആശ്രയിച്ച് സ്പെസിമെനും ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്കും അവർക്ക് നിരവധി ഗ്രാഫുകൾ ലഭിച്ചു നിങ്ങൾ അവ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു അധിക ഗ്രാഫ് ലഭിക്കും നിങ്ങൾ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്ലോട്ട് ചെയ്യുന്നതിനുപകരം ആളുകൾ ചിന്തിച്ചു ഈ ഡാറ്റയെല്ലാം ഒരൊറ്റ കർവിലാണ് എന്ന് ഫ്രാക്ചർ മെക്കാനിക്സിലും സമാനമായ ഒന്ന് സംഭവിച്ചു പാരീസ് നിയമം ഈ ക്രെഡിറ്റ് പാരീസിലേക്ക് പോകുന്നു നിങ്ങൾ ഗ്രാഫ് നിരീക്ഷിക്കുക അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് എനിക്ക് ഒരു സ്ട്രൈയിറ്റ് ലൈൻ ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ലോഗ് ലോഗ് പ്ലോട്ടാണ് എല്ലാ കളറുകളുടെയും ഡാറ്റാ പോയിൻറ് വളരെ മികച്ചതാണെന്ന് ഈ ലൈനിനടുത്ത് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഇൻഡിവിജ്യുവൽ ക്രാക്ക് ഗ്രോത്ത് കർവിന്റെ ഡാറ്റ എന്തുതന്നെയായാലും നിങ്ങൾ x ആക്സിസ് ഡെൽറ്റ K ആയി തിരഞ്ഞെടുത്താൽ അവയെല്ലാം ഘടിപ്പിക്കാം ഇത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ റേഞ്ചും y ആക്സിസ്സ്സിൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് da ബൈ dN ആയി നൽകിയിരിക്കുന്നു ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ഇതാണ് ലോഗ് ലോഗ് പ്ലോട്ട് ഒരൊറ്റ മെറ്റീരിയലിനായുള്ള എല്ലാ ക്രാക്ക് ഗ്രോത്ത് കർവ് ഡാറ്റയും ഒരൊറ്റ ഗ്രാഫിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഇത് നിങ്ങളുടെ ഡിസൈൻ കാൽകുലേഷന് ഉപയോഗപ്പെടുത്താം ഇത് പാരീസാണ് നേടിയത് ഇതിനെ പാരീസ് നിയമം എന്ന് വിളിക്കുന്നു അതിനാൽ പാരീസ് നിയമം പറയുന്നു da ബൈ dN ഇക്വൽ ടു C ഇൻറ്റു ഡെൽറ്റ K പവർ m അതിനാൽ ഇവിടെ C യും m മും മെറ്റീരിയൽ കോൺസ്ട്രൈൻസുകൾ ആണ് മെറ്റീരിയൽ ടെസ്റ്റിംഗിൽ നിന്ന് അവ നിർണ്ണയിക്കേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ക്രാക്ക് ഗ്രോത്തിനെ മോഡലിൽ ആക്കാനുള്ള പ്രധാന ഘട്ടമാണ് പാരീസിന്റെ ഒബ്സെർവഷൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അത് ഒരിക്കലും മറക്കരുത് വലിയ ഡാറ്റ ശേഖരിക്കുന്നതിൽ അർത്ഥമില്ല ഇത് എന്തുചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല ഡിസൈൻ കാൽകുലേഷനിൽ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ ഡാറ്റ ശരിയായി പ്രതിനിധീകരിക്കേണ്ടതുണ്ട് ഈ പാരീസ് നിയമത്തിന്റെ പിന്നിലെ ചരിത്രം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പ്റോച്ച് പൂർണ്ണമായും എംപിരിക്കൽ ആണെന്നും നമുക്ക് തിരിച്ചറിയാം ഈ സമവാക്യത്തിൽ എത്താൻ നിങ്ങൾക്ക് തിയോറേറ്റിക്കൽ ബെയിസിസ് ഇല്ല ഇത് നിങ്ങൾ ശേഖരിച്ച ഡാറ്റയുടെ കർവ് ഫിറ്റിംഗ് എക്സ്ർസൈസ് ആണ് അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അവർ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ക്യാറ്റസ്ട്രോപ്പിക് ഫേയില്യൂവർ സ്റ്റേജിലേക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആളുകൾ പാരീസ് നിയമത്തിന്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് വേർഷൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു കോംപ്ലിക്കേറ്റഡ് ഫിനോമിനനെ മോഡൽ ആക്കുന്നത് വളരെ ലളിതമാണ് അതിനാൽഒറിജിൻ തികച്ചും എംപിരിക്കൽ ആണെങ്കിലും വളരെ ഉപയോഗപ്രദമാണ് പാരീസ് നിയമത്തിന്റെ ഇൻജെന്യുറ്റി എന്താണ് ക്രാക്ക് ഗ്രോത്ത് റേറ്റിന്റെ അപ്പ്ലൈഡ് സ്ട്രെസ്സിന്റെയും ക്രാക്ക് ലെങ്തിന്റെയും സ്വാധീനം ബുദ്ധിപരമായി ഒരു പാരാമീറ്റർ ഡെൽറ്റ K മോഡലാക്കി അതാണ് ഇതിന്റെ ഗുണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ വർക്ക് ഒരു ബോയിംഗ് ടെക്നിക്കൽ റേറ്റ് നോട്ടായി പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതെന്താണ് ഈ ഫാറ്റിഗ്ഗ് ഫേയില്യൂവറിൽ പലതും എൻവയറോണ്മെന്റ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പാരീസ് നിയമം വികസിപ്പിക്കുമ്പോൾ പാരിസ് എൻവയറോണ്മെന്റിന്റെ സ്വാധീനം പരിഗണിച്ചില്ല എൻവയറോണ്മെന്റിനെ ആരംഭിക്കുന്നതിനുള്ള പരിഗണനയില്ലാത്തതിനാൽ ലളിതമായ ഒരു എംപിരിക്കൽ റിലേഷനിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നോക്കൂ എഞ്ചിനീയറിംഗിൽ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്യുലർ ഫിനോമിനനെ സിംപ്ലർ എക്സ്പ്രഷനിലൂടെ മോഡൽ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അനുഭവത്തിൽ നിന്ന് അവർ നൽകുന്ന ഫീൽഡ് ഫലങ്ങൾ എന്തുതന്നെയായാലും നിങ്ങൾ കറക്ഷൻ ഫാക്ടർകൾ കൊണ്ടുവരുന്നു അതിനാൽ ഒരു ഡിസൈൻ പ്രാക്ടീസ് വ്യൂവിൽ നിന്ന് ഇത്തരത്തിലുള്ള സമീപനം സാധ്യമാണ് അതിനാൽ പാരിസ് കേർണലിലേക്ക് നോക്കി da ബൈ dN ഡെൽറ്റ K എന്നിവ തമ്മിലുള്ള ബന്ധത്തിൽ എൻവയറോണ്മെന്റിന്റെ റോൾ തുടങ്ങിയ ഘടകങ്ങൾ കൊണ്ടുവരാതെ എത്തി ക്രാക്ക് ഗ്രോത്ത് റേറ്റിന് എൻവയറോണ്മെന്റിന്റ് കാര്യമായ സ്വാധീനമുണ്ടെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻവയറോണ്മെന്റിന് അനുയോജ്യമായ രീതിയിൽ ആളുകൾ പിന്നീട് പാരീസ് നിയമം പരിഷ്കരിച്ചു ചുരുക്കത്തിൽ പാരിസ് നിയമം ഗംഭീരവും എൻവയറോണ്മെന്റിന്റ് പങ്ക് മോഡൽ ആക്കുന്നതിനായി കറക്ഷനുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻവയറോണ്മെന്റ് എങ്ങനെയാണ് ക്രാക്ക് ഗ്രോത്ത് റേറ്റിനെ മാറ്റുന്നതെന്നും നമ്മൾ കാണും ഏത് തരത്തിലുള്ളഅഗ്ഗ്രസിവ് എൻവയറോണ്മെന്റുകളാണ് നമ്മൾ നോക്കേണ്ടത് കുറച്ച് സ്ലൈഡുകൾക്ക് ശേഷം നമ്മൾ എല്ലാം കാണും നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് നിങ്ങൾക്കറിയാമോ നമുക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും പാരീസ് നിയമം വ്യാലിഡ് ഉള്ളതാണോ പാരീസ് നിയമത്തിന്റെ വ്യാലിഡേഷൻ വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് ലിറ്ററച്ചറിൽ നിന്നും ഉത്തരം ലഭിച്ചു അവർ രണ്ട് വ്യത്യസ്ത സ്പെസിമെനുകൾ എടുത്തിട്ടുണ്ട് ഡൊണാൾഡ്സണും ആൻഡേഴ്സണും ഇത് ചെയ്തു തികച്ചും വ്യത്യസ്തമായ രണ്ട് കോൺഫിഗറേഷനുകൾക്കായി അവർ ക്രാക്ക് ഗ്രോത്ത് ഡാറ്റ ശേഖരിച്ചു നോക്കൂ നിങ്ങൾ ശരിക്കും സംസാരിക്കുന്നു ഏത് റേറ്റിൽ ക്രാക്ക് ഗ്രോത്ത് നടക്കും കോൺഫിഗറേഷനുകൾ അവർ തിരഞ്ഞെടുക്കുന്ന രീതി ഏതാണ് ഒരു സാഹചര്യത്തിൽ ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ കുറയുന്നു വാസ്തവത്തിൽ നമ്മൾ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് കണ്ടു ഒരു സെന്റർ ക്രാക്ക് ഒരു വെഡ്ജ് ലോഡിന് വിധേയമാണെങ്കിൽ ക്രാക്കിന്റെ ലെങ്തിന്റെ പ്രവർത്തനമായി SIF കുറയുന്നത് നമ്മൾ കണ്ടു അവർ തിരഞ്ഞെടുത്ത മറ്റൊരു ഉദാഹരണം ക്രാക്കിന്റെ ലെങ്തിന്റെ പ്രവർത്തനമായി SIF വർദ്ധിക്കുന്നു ഇത് വ്യക്തമാണ് മിക്ക പ്രശ്നങ്ങളിലും ഇത് സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ഫാർ ഫീൽഡ് സ്ട്രെസിന് വിധേയമായ ഒരു സെന്റർ ക്രാക്കഡ് പാനൽ എടുക്കുകയാണെങ്കിൽ ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി SIF വർദ്ധിക്കും പാരീസ് നിയമം ഈ രണ്ട് വിപരീത തരത്തിലുള്ള SIF ബിഹേവിയറിൽ കൃത്യമായി പ്രവചിക്കുന്നുവെന്ന് കരുതുക da ബൈ dN ഡെൽറ്റ K യുമായി ബന്ധപ്പെട്ടിരിക്കാം തുടർന്ന് പാരീസ് നിയമത്തിന്റെ വികാസത്തിൽ ഒരു വസ്തുതയുണ്ട് ആളുകൾ ചോദ്യം ഉന്നയിക്കുകയും ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന രീതി ഇതാണ് അതിനാൽ അവർ A യുടെ ഒരു സ്പെസിമെൻ എടുത്തു ഇതിനായി KI ഇക്വൽ ടു P ബൈ റൂട്ട് ഓഫ് പൈ ഉപയോഗിച്ച് അതിനാൽ ക്രാക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ കുറയുന്നു അവർ B യെ സ്പെസിമെനായി പരിഗണിച്ചു അതിൽ ക്രാക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടറും വർദ്ധിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായ വ്യൂ ലഭിക്കും പാരീസ് നിയമത്തിന്റെ നിലനിൽപ്പ് സാധൂകരിക്കുന്നതിന് രണ്ട് മാതൃക കോൺഫിഗറേഷനുകൾ എടുത്തിട്ടുണ്ട് സ്പെസിമെൻ A യുടെ കാര്യത്തിൽ ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ കുറയുന്നു സ്പെസിമെൻ B യുടെ കാര്യത്തിൽക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ വർദ്ധിക്കുന്നു അതിനാൽ അവർ പരിശോധന നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് ഇവ രണ്ടിനും നിങ്ങൾക്ക് അർത്ഥവത്തായ ഒരു ഗ്രാഫ് ലഭിക്കും അതിൽ x ആക്സിസ്സിൽ d ബൈ dN ആണ് ഞാൻ നിങ്ങൾക്കായി ഇത് വലുതാക്കും നിങ്ങൾക്ക് d ഡിവൈഡഡ് ബൈ dN Y ആക്സിസ്സിൽ ഡെൽറ്റ K അതിനാൽ ഈ രണ്ട് വൈരുദ്ധ്യ വഴികളിലും ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി SIF മാറുന്നു ഡെൽറ്റ K യുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്രാക്ക് ഗ്രോത്ത് നിരക്ക് തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഇത് വ്യത്യസ്തമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇത് y ആക്സിസ്സിനുപകരം d ബൈ dN x ആക്സിസ്സിൽ ഇടുന്നു എന്നാൽ ലിറ്ററേച്ചറിൽ യഥാർത്ഥത്തിൽ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് അതിനാൽ നിങ്ങളുടെ ഡിസൈൻ കാൽകുലേഷനായി പാരീസ് നിയമം ഉപയോഗിക്കാമെന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു നിങ്ങൾ നോക്കേണ്ട രീതി അതാണ് അതിനാൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ്റ്റും സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ റേയിഞ്ചും തമ്മിലുള്ള ബന്ധം ഈ രണ്ട് ലോഡിംഗ് കോൺഫിഗറേഷനുകൾക്കും സമാനമാണ് അതിനാൽ ആളുകൾക്ക് പാരീസ് നിയമം പിന്തുടരാനും ഉപയോഗിക്കാനും മതിയായ ആത്മവിശ്വാസം നൽകി നിരവധി പരിഷ്കാരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് നമുക്ക് അത് നോക്കാം ഈ സംഗ്രഹം ക്രാക്ക് ഗ്രോത്ത് റേറ്റ് കർവ് എങ്ങനെ നേടാമെന്നും നിങ്ങളുടെ പാരീസ് നിയമത്തിൽ എങ്ങനെ അവസാനിക്കുമെന്നും കാണിക്കുന്നതിനാണ് സൈക്ലിക്കൽ ലോഡിംഗിന് വിധേയമായ ഒരു സ്പെസിമെൻ നിങ്ങൾ എടുക്കുന്നു ഇത് 0 ലേക്ക് പോകുന്നു അത് വിപരീതമല്ല ക്രാക്ക് ഗ്രോത്ത് റേറ്റ്റ്റും നിങ്ങൾ നിരീക്ഷിക്കുന്നു അതിനാൽ ഈ ഡാറ്റയിൽ നിന്ന് പരീക്ഷണ ഫലത്തെ അടിസ്ഥാനമാക്കി കോൺസ്റ്റന്റ് C m എന്നിവ കണ്ടെത്തുക da ബൈ dN കർവ് ഈ രൂപത്തിലുള്ള ക്രാക്ക് ഗ്രോത്ത് റേറ്റ്റ്റ്റിനെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ക്രാക്ക് ഇനീഷ്യേഷനെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് വാസ്തവത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇൻഡ്യൂറൻസ് ലിമിറ്റിൽ ആണെന്ന് പല ഫെറസ് മെറ്റീരിയലുകളും അൺലിമിറ്റിഡ് ഫാറ്റിഗ്ഗ് കാണിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടായാൽ ഫാറ്റിഗ്ഗിലുടെ ക്രാക്ക് എങ്ങനെ വളരുമെന്ന് പാരീസ് നിയമത്തെ നന്നായി പ്രതിനിധീകരിക്കുന്നു ഒരു ക്രാക്ക് ഇനിഷ്യഷൻ ഫേസ് ഉണ്ട് ഇവിടെ ഫാറ്റിഗ്ഗിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ഞങ്ങൾ കൊണ്ടുവരുന്നു ഫാറ്റിഗ്ഗിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന ആശയം ഉണ്ട് അതിനാൽ ഇത് വളരെ ചെറുതും നിങ്ങൾക്ക് ലോഡിംഗ് വളരെ ചെറുതുമായ ക്രാക്കുകളെ കാണിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ സേവനത്തിൽ ക്രാക്ക് ഗ്രോ ചെയ്യില്ല ഈ നിഗമനത്തിലാണ് നമുക്ക് എത്തിച്ചേരാനാകുക അതിനാൽ ക്രാക്കുകകൾ ആരംഭിക്കാവുന്ന ഒരു ത്രെഷോൾഡ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ താഴെയായിരിക്കണം അതിനാൽ ഈ ആശയം മുന്നേറി അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് അതിനാൽ സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത് ഡെൽറ്റ K ത്രെഷോൾഡ് വാല്യൂവിന് താഴെയായി ക്രാക്ക് ആരംഭിക്കില്ല തന്നിരിക്കുന്ന മെറ്റീരിയലിനായി ഡെൽറ്റ K ത്രെഷോൾഡ് വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അടിസ്ഥാന ആശയം ഡെൽറ്റ K യുടെ ചെറിയ വാല്യൂവിനായി വളരെ ചെറിയ ക്രാക്കുകൾ പ്രചരിപ്പിച്ചേക്കില്ല ഇത് സ്പെക്ട്രത്തിന്റെ ഒരറ്റമാണ് സ്പെക്ട്രത്തിന്റെ മറ്റേ അറ്റത്ത് ഡെൽറ്റ K മെറ്റീരിയലിന്റെ ഫ്രാക്ചർ ടഫ്നെസുമായി താരതമ്യപ്പെടുത്തും ക്രാക്ക് ഗ്രോത്ത് റേറ്റ്റ്റും വളരെ വലുതായിത്തീരുന്നു അതിനാൽ രണ്ടും നിലവിലുണ്ട് ക്രാക്കിന്റെ പൂർണ്ണമായ കഥ മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഒരു ക്രാക്ക് ഇനീഷ്യേഷൻ ഫേസ് ഒരു ക്രാക്ക് ഗ്രോത്ത് ഫേസുമുണ്ടാകും അതിനുശേഷം ക്യാറ്റസ്ട്രോപ്പിക് ഫേയില്യൂവർ എന്നിവ ഉണ്ടാകും കൂടാതെ ലിറ്ററേച്ചറിലും നിങ്ങൾക്ക് ഉണ്ട് പല അലോയ്കൾക്കും ഡെൽറ്റ K ത്രെഷോൾഡ് വാല്യൂ എന്താണ് അതിന്റെ ഒരു സാമ്പിൾ നമ്മൾ കാണും നിങ്ങൾക്ക് സ്റ്റീൽ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് നിരകളുണ്ട് നിങ്ങൾക്ക് R ഉള്ള ഒരു നിരയുണ്ട് അതിന്റെ നിർവചനം നമ്മൾ വേഗത്തിൽ കാണും ഒരു സ്ട്രെസ് റേഷിയോ ആണ് ഇതും K മിനിമം ഡിവൈഡഡ് ബൈ K മാക്സ് ന് തുല്യമാണ് ഇത് നിങ്ങളുടെ R കർവ് അല്ല ഫ്രാക്ച്ചറിൽ നിന്നും ഫാറ്റിഗ്ഗിൽ നിന്നുമുള്ള ചിഹ്നങ്ങളുടെ മിശ്രിതമുണ്ട് അതിനാൽ നിങ്ങൾ ഫാറ്റിഗ്ഗ് ലിറ്ററേച്ചറിലേക്ക് പോയാൽ മീൻ സ്ട്രെസ് വർദ്ധിക്കുമ്പോൾ R ഉം വർദ്ധിക്കും ഇത് 0 13 മുതൽ 0 75 വരെ മാറുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ മീൻ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ K ത്രെഷോൾഡ് വാല്യൂ കുറയുന്നു ഇത് 6 6 MPa റൂട്ട് മീറ്ററിൽ നിന്ന് 3 8 MPa റൂട്ട് മീറ്ററിലേക്ക് താഴുന്നു അതായത് മീൻ സ്ട്രെസ് വർദ്ധിക്കുകയാണെങ്കിൽ ഡെൽറ്റ K ത്രെഷോൾഡ് കുറയുന്നു അതിനാൽ R 0 ന് തുല്യമാകുമ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ നേരത്തെ ക്രാക്ക് ആരംഭിക്കും മറ്റ് മെറ്റീരിയലിലും നിങ്ങൾ സിമിലർ സിറ്റുവേഷൻ കാണുന്നു R 0 1 ൽ നിന്ന് 0 8 ലേക്ക് മാറ്റുമ്പോൾ ഡെൽറ്റ K ത്രെഷോൾഡ് 8 MPa റൂട്ട് മീറ്ററിൽ നിന്ന് 3 1 ആയി മാറുന്നു സ്ട്രെസ് റേഷിയോയുടെ നിർവചനം അതിനാൽ R എന്താണ് എന്ന് നമ്മൾ കാണും ഫാറ്റിഗ്ഗ് ലിറ്ററേച്ചറിൽനിന്നാണ് ഇത് വരുന്നത് R എന്നത് സ്ട്രെസ് റേഷിയോ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എനിക്ക് N നും K നും ഇടയിൽ ഒരു ഗ്രാഫ് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് സൈക്ലിക്കൽ വേരിയിങ് ലോഡ് ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ R 0 നെക്കാൾ വലുതാണ് കൂടാതെ R എന്നത് സിഗ്മ മിനിമം ഡിവൈഡഡ് ബൈ സിഗ്മ മാക്സ് ഇക്വൽ ടു കൊണ്ട് K മിനിമം ഡിവൈഡഡ് ബൈ K മാക്സ് R എന്നത് സ്ട്രെസ് റേഷ്യോ ആണ് ഇത് നിങ്ങളുടെ R കർവ് അല്ല അതിനാൽ സന്ദർഭത്തെ ആശ്രയിച്ച് നിങ്ങൾ R എന്ന ചിഹ്നത്തിലേക്ക് ഒരു അർത്ഥം അറ്റാച്ചുചെയ്യണം നിങ്ങൾ ക്രാക്ക് ഇനീഷ്യേഷനെക്കുറിച്ചും ലൈഫ് എസ്റ്റിമേറ്റിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ R നോക്കേണ്ടതുണ്ട് ഇത് ഫാറ്റിഗ്ഗ് ലിറ്ററേച്ചറിൽ സ്ട്രെസ് റേഷ്യോ ആണ് അതിനാൽ എനിക്ക് R 0 ന് തുല്യമാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ലോഡ് 0 നെ സ്പർശിക്കുന്നു കൂടാതെ R മൈനസ് 1 ന് തുല്യമാണ് ഫാറ്റിഗ്ഗിന്റെ കാര്യത്തിൽ അത് നിങ്ങളുടെ ഫാറ്റിഗ്സ് ബെൻഡിങ് സ്പെസിമെൻ നൽകുന്ന തരത്തിലുള്ള ലോഡിംഗാണ് നമ്മൾ ഫ്രാക്ച്ചറിൽ ഇത് ചെയ്യില്ല നമുക്ക് R ഒന്നുകിൽ 0 ന് തുല്യമോ 0 നെക്കാൾ വലുതോ ആയിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കാണ് പരിശോധനകൾ നടത്തുന്നത് അതിനാൽ R 0 നെക്കാൾ വലുതാകുമ്പോൾ സിഗ്മ മിനിമം 0 നേക്കാൾ വലുതാണ് R 0 ന് തുല്യമാകുമ്പോൾ സിഗ്മ മിനിമം 0 ന് തുല്യമാണ് R മൈനസ് 1 ന് തുല്യമാകുമ്പോൾ സിഗ്മ മിനിമം മൈനസ് സിഗ്മ മാക്സാണ് അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഫാറ്റീഗ്ഗും ഫ്രാക്ചറും തമ്മിൽ ചിഹ്നങ്ങളുടെ ക്ലാഷ് ഉണ്ട് ഈ അധ്യായത്തിൽ നമ്മൾ സ്ട്രെസ് റേഷ്യോ ആയി R ഉപയോഗിക്കും നമ്മൾ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടിവരും നമ്മൾ ഈ രീതിയിൽ R ഉപയോഗിക്കും ഇത് പ്രധാനമാണ് ക്രാക്ക് ഇനീഷ്യേഷനും ക്രാക്ക് ഗ്രോത്തും തമ്മിൽ ഉള്ള റിലേറ്റീവ് പ്രൊപോർഷൻ എന്താണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഓവർ വ്യൂവിൽ നമ്മൾ ഈ സ്ലൈഡ് വളരെക്കാലം മുമ്പ് കണ്ടു നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ട്രെസ് ലെവലിനെ ആശ്രയിച്ച് ക്രാക്ക് ഓർഗനൈസേഷനും ക്രാക്ക് പ്രൊപ്പഗേഷനും 50 50 ആകാം അല്ലെങ്കിൽ ക്രാക്ക് ഇനിഷ്യേഷൻ ദൈർഘ്യമേറിയതും ക്രാക്ക് പ്രൊപ്പഗേഷൻ ചെറുതും ആകാം ക്രാക്ക് ഓർഗനൈസേഷൻ ഫേസ് മെറ്റലർജിസ്റ്റുകളാണ് ശരിക്കും സംഭാവന നൽകുന്നത് നിങ്ങൾ ക്രാക്ക് ഇനിഷ്യഷൻ വൈകിക്കുകയാണെങ്കിൽ എല്ലാം കൂടുതൽ മികച്ചതാണ് അതിനാൽ ക്രാക്ക് ഇനിഷ്യഷൻ വൈകിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിസൈൻ ലൈഫിൽ നിങ്ങൾക്ക് നേട്ടം ലഭിക്കും ക്രാക്ക് ഗ്രോ ചെയ്തു തുടങ്ങിയാൽ ഫ്രാക്ചർ മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് NDT ഷെഡ്യൂളുകൾ വികസിപ്പിക്കാനും സാഹചര്യം കൈകാര്യം ചെയ്യാനും കഴിയും ക്രാക്ക് ഓർഗനൈസേഷനായുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് കാണും ക്രാക്ക് പ്രൊപ്പഗേഷൻ ഫേസ് ചർച്ച ചെയ്തതിനുശേഷം ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക് എങ്ങനെ ആരംഭിക്കുമെന്ന് നിങ്ങളോട് പറയുന്ന മോഡലുകളും നമ്മൾ കാണും സിഗ്മോയ്ഡൽ കർവ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഒരു ഫേസ് ഉണ്ട് അതിൽ ഒരു ക്രാക്ക് ആരംഭിക്കുന്നതിന് ഡെൽറ്റ K ത്രെഷോൾഡ് ആവശ്യമാണ് ഇതിനെ റീജിയണിനെ 1 എന്ന് വിളിക്കാം ഒരു ക്രാക്ക് ഫേയിസിനെ റീജിയൺ 2 എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഫേസ് ഉണ്ട് ഇതിനെ റീജിയൺ 3 എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ക്രാക്ക് ഗ്രോത്തിന്റെ പൂർണ്ണ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതിനെ സിഗ്മോയിഡൽ കർവ് എന്ന് വിളിക്കുന്നു നിലവിൽ റീജിയൺ 2 ൽ ക്രാക്ക് എങ്ങനെ വളരുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ പ്രദേശം തിരിച്ച് നമ്മൾ കാണും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് റീജിയൺ 1 ൽ എന്ത് സംഭവിക്കും റീജിയൺ 2 ൽ എന്തുസംഭവിക്കുന്നു റീജിയൺ 3 ൽ എന്ത് സംഭവിക്കും ഈ രീതിയിലാണ് നമ്മൾ ഇത് നോക്കുക റീജിയൺ 1 ൽ എന്ത് സംഭവിക്കും ഇതാണ് മൈക്രോ ക്രാക്ക് ഗ്രോത്ത് റീജിയൺ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടും ഈ സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നത് ക്രാക്ക് ഗ്രോത്ത് നാനോമീറ്ററിന്റെ ക്രമത്തിൽ വളരെ ചെറുതാണ് ക്രാക്ക് ഫ്രണ്ടിനൊപ്പം ചെറിയ ദൂരങ്ങളിൽ പോലും അവ ആകർഷകമല്ല അതിനാൽ ഫലം എന്താണ് നിങ്ങൾക്ക് ഫാറ്റിഗ്സ് ക്രാക്ക് ഗ്രോത്തിൽ കാണുന്ന സ്ട്രൈക്കുകളുടെ രൂപീകരണം ഉണ്ടാകില്ല റീജിയൺ 1 ന്റെ കാര്യത്തിൽ വ്യക്തമായ കട്ട് സ്ട്രൈഷനുകൾ നിങ്ങൾ കാണില്ല അതിനാൽ അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് സ്വാധീനിക്കുന്ന ആസ്പെക്ടസ് എന്തൊക്കെയാണ് മെറ്റീരിയലിന്റെ മൈക്രോ സ്ട്രക്ച്ചർ മീൻ സ്ട്രെസ് എൻവയറോണ്മെന്റ് എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മെറ്റലർജിസ്റ്റുകൾ മൈക്രോ സ്ട്രക്ചറുമായി കളിക്കുന്നു അങ്ങനെ അവർ ക്രാക്ക് ഇനീഷ്യേഷൻ ഫേസ് വൈകും സ്ട്രെസ് ഒരു പങ്ക് വഹിക്കുന്നുവെന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ R ന്റെ ഉയർന്ന വാല്യൂവിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടാതെ എൻവയറോണ്മെന്റ്നും വലിയ സ്വാധീനമുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഗ്രാഫിലും കാണുന്നത് പോലെ സ്ട്രക്ച്ചറിന്റെ പരമാവധി ആയുസ്സ് ഈ റീജിയണിലാണ് ഇത് ഓപ്പറേറ്റിംഗ് ലോഡിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ കുറഞ്ഞ സ്ട്രെസ് ലെവലിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഫേയിസിന് ശേഷമുള്ള ദൈർഘ്യമേറിയ ഇനീഷ്യൽ ഫേസ് ഉണ്ടാകും തുടർന്ന് നമ്മൾ റീജിയൺ 2 ലേക്ക് പോകും റീജിയൺ 2 ന്റെ കാര്യത്തിൽ ഒരു സൈക്കിളിന് 10 പവർ മൈനസ് 4 മില്ലിമീറ്റർ മുതൽ 10 പവർ മൈനസ് 2 മില്ലിമീറ്റർ വരെയാണ് ക്രാക്ക് ഗ്രോത്ത് റേറ്റ് അതായത് ഒരു മില്ലിമീറ്ററിന്റെ നൂറിലൊന്ന് അതിനാൽ ഇത് ഇപ്പോഴും ചെറുതാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് തുടക്കത്തിൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ചെറുതായിരിക്കും ക്രാക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രാക്കിന്റെ ഗ്രോത്ത് റേറ്റ്റ്റും വർദ്ധിക്കും വാസ്തവത്തിൽ നിങ്ങളുടെ അസൈൻമെന്റ് പ്രശ്നങ്ങളിലൊന്നിൽ ഒരു മെറ്റലർജി പരിശോധനയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രൈക്കുകൾ രേഖപ്പെടുത്തും ആ സ്ട്രിയേഷൻസിനേയും ഡിസ്റ്റൻസിനെയും അടിസ്ഥാനമാക്കി നിങ്ങൾ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് കണക്കാക്കേണ്ടതുണ്ട് അതു സാധ്യമാണ് നിങ്ങൾക്ക് വലിയ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ഉള്ളതിനാൽ ഈ റീജിയണിൽ സ്ട്രിയേഷൻസ് സാധ്യമാണ് സാധാരണയുള്ള വസ്തുക്കളിൽ സ്ട്രൈഷനുകൾ വളരെ വ്യക്തമായി കാണാം അതിനാൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മെറ്റീരിയൽ കാണിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ റീജിയൺ 2 ൽ നിങ്ങൾക്ക് സ്ട്രൈഷനുകൾ കാണാൻ കഴിയും കാരണം സ്ട്രൈഷനുകളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ചില മെറ്റീരിയലുകളിൽ സ്ട്രൈഷനുകൾ കാണില്ലെന്ന് ഞാൻ പറഞ്ഞു അതിനർത്ഥം ഫാറ്റിഗ്സ് ക്രാക്ക് ഗ്രോത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത് മെറ്റീരിയലിന്റെ കോമ്പോസിഷന്റെ ഒരു ഫങ്ക്ഷൻ കൂടിയാണ് അതിനാൽ സ്ട്രൈയേഷനുകൾ കാണാൻ കഴിയുന്ന മെറ്റീരിയലുകളിൽ ഇത് റീജിയൺ 2 ൽ കാണപ്പെടുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈക്രോ സ്ട്രക്ച്ചറിന് മെറ്റീരിയലിനെ ആശ്രയിച്ച് ചെറുതും വലുതുമായ സ്വാധീനമുണ്ട് ഇത് നിങ്ങൾ പരിഗണിക്കുന്ന മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു അടുത്ത വശം എൻവയറോണ്മെന്റിനു എന്ത് പങ്കുണ്ട് എന്നതാണ് എൻവയറോണ്മെന്റ് മീൻ സ്ട്രെസ് ഫ്രീക്വൻസി എന്നിവയുടെ ചില കോംബിനേഷന് കാര്യമായ സ്വാധീനമുണ്ട് നോക്കൂ നിങ്ങൾക്ക് റാൻഡം വൈബ്രേഷൻ പ്രോബ്ലം ഉണ്ട് അതിനാൽ ലോഡ് പ്രയോഗിക്കുന്ന ഫ്രീക്വൻസി എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിനാൽ പ്രധാനപ്പെട്ടതെല്ലാം പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമായിത്തീരുന്നു ക്രാക്ക് ഗ്രോത്ത് റേറ്റ് മനസിലാക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ പ്രാതിനിധ്യമാണ് പാരിസ് നിയമം വിനാശകരമല്ലാത്ത സാങ്കേതിക വിദ്യകളാൽ ക്രാക്ക് ഗ്രോത്ത് നിരീക്ഷിക്കാൻ കഴിയുന്ന മേഖലയാണിത് നമ്മൾ ഇതിനകം പാരീസ് നിയമം കണ്ടു പാരീസ് നിയമം ഈ റീജിയനിൽ ബാധകമാണ് നിങ്ങൾ C m എന്നിവ നോക്കുകയാണെങ്കിൽ ഇവ ജനറിക് സിംബൽസ് പോലെയാണ് പാരീസ് നിയമം പ്രയോഗിക്കുന്നതിന് നിങ്ങൾ ഡാറ്റ തിരഞ്ഞെടുക്കുമായിരുന്നു ആ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാനും Cm എന്നിവയുടെ വാല്യൂ കണക്കാക്കാനും കഴിയും നമ്മൾ ഉടൻ കാണുന്ന മറ്റൊരു നിയമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് C m എന്നിവയും ഉണ്ടാകും എന്നാൽ ഈ ചിഹ്നങ്ങൾ ഈ ചിഹ്നങ്ങൾക്ക് തുല്യമല്ല ഇത് ജനറിക് സിംബൽസ് മാത്രമാണ് നിങ്ങൾക്ക് കർവിന് യോജിക്കാൻ കഴിയുന്ന മെറ്റീരിയലിൽ നിന്നും ആ ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് അതിനാൽ അത് അതിനൊപ്പം പോകുന്നു കൂടാതെ റീജിയൺ 3 ഒരു സൈക്കിളിന് 10 പവർ മൈനസ് 2 മില്ലിമീറ്റർ മുതൽ 10 പവർ മൈനസ് 1 മില്ലിമീറ്റർ വരെ ക്രമത്തിൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ഉണ്ട് അത് വളരെ ഉയർന്നതാണ് അതായത് ഓരോ സൈക്കിളിനും 0 1 മില്ലിമീറ്റർ 1 സൈക്കിളിൽ മുഴുവൻ ഗ്രേയ്നിലൂടെയും ക്രാക്ക് പ്രവർത്തിക്കുന്നു അതിനാൽ കംപോണന്റ്സ് ഈ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ അത് ഉപേക്ഷിക്കണം നിങ്ങൾക്ക് ഈ കംപോണന്റ്സ് ഉപയോഗിക്കാൻ കഴിയില്ല റീജിയൺ 3 ൽ മൈക്രോ സ്ട്രക്ച്ചർ മീൻ സ്ട്രെസ് തിക്നെസ്സ് എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട് റീജിയൺ1 ന്റെ കാര്യത്തിലും റീജിയൺ 2 ലും എൻവയറോണ്മെന്റിനു ഒരു പങ്കുണ്ടെന്ന് നമ്മൾ കണ്ടു റീജിയൺ 3 നെ സംബന്ധിച്ചിടത്തോളം എൻവയറോണ്മെന്റിനു ഒരു പ്രധാന പങ്കുമില്ല ക്രാക്ക് ഗ്രോത്ത് ഈ സ്റ്റേജിലെത്തിയാൽ കംപോണന്റ്സ് ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് തികച്ചും വ്യക്തമാണ് അതിനാൽ നിങ്ങളുടെ പാരീസ് നിയമം ശരിയായി നടപ്പിലാക്കുകയാണെങ്കിൽ എപ്പോൾ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് വർദ്ധിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പാരിസ് നിയമം റീജിയൺ 2 ന്റെ അവസാനം വരെ മാത്രമേ സാധുതയുള്ളൂ അതിനാൽ ഇതാണ് കാരണം പ്രദേശം 3 പ്രവചിച്ചാൽ എന്ത് സംഭവിക്കും ആളുകൾ ഇൻകോർപൊറേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു ഇതും ത്രെഷോൾഡും സംയോജിപ്പിക്കാൻ അവർ ശ്രമിച്ചു അതിനാൽ പാരീസിന്റെ അടിസ്ഥാനം പിന്തുടരുന്ന നിരവധി നിയമങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഡൊണാഹ്യൂ നിയമം എനിക്ക് da ബൈ dN ഇക്വൽ ടു C മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ K മൈനസ് ഡെൽറ്റ K ത്രെഷോൾഡ് ഹോൾ പവർ m ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ Cm എന്നിവ നിങ്ങൾക്ക് പാരീസ് നിയമം ഘടിപ്പിച്ച മെറ്റീരിയലിൽ നിന്ന് എടുക്കാനാവില്ല Cm എന്നിവയുടെ വാല്യൂ ഇവിടെ നിന്ന് ഉപയോഗിക്കാം അവർ പഠിച്ച മെറ്റീരിയലുകൾക്കായി നിങ്ങൾ ഡാറ്റ എഡിറ്റുചെയ്യേണ്ടതുണ്ട് ആ മെറ്റീരിയലുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ നിയമം ഉപയോഗിക്കാൻ കഴിയൂ ഇത് പ്രധാനമായും ഒരു കർവ് ഫിറ്റിംഗ് എക്സ്സെർസൈസ് ആണ് ക്രാക്ക് ഗ്രോത്ത് റേറ്റ് കർവ് നമുക്ക് ലഭിക്കുന്ന ഫോം എന്തുതന്നെയായാലും ഇത് അടിസ്ഥാനപരമായി ഒരു കർവ് ഫിറ്റിംഗ് എക്സ്സെർസൈസ് ആണ് തികച്ചും എംപിരിക്കൽ ആണ് ഒരു പ്രത്യേക ഡാറ്റാ സെറ്റിനെ അടിസ്ഥാനമാക്കി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റാ സെറ്റിന് പുറത്ത് നിങ്ങൾ ഈ എംപിരിക്കൽ നിയമം ഉപയോഗിക്കരുത് അതിനാൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡാറ്റ സെറ്റിനൊപ്പം ഇത് പോകുന്നു ഡെൽറ്റ K ത്രെഷോൾഡ് R ന്റെ ഒരു ഫംഗ്ഷനായി പ്രകടിപ്പിക്കുന്നു അത് നമ്മൾ പിന്നീട് കാണും R മാറുമ്പോൾ ഡെൽറ്റ K ത്രെഷോൾഡ് മാറുന്നു അതിനാൽ ഇത് 1 മൈനസ് R ഹോൾ പവർ ഗാമയായി ഡെൽറ്റ K ത്രെഷോൾഡ് കൊണ്ട് ഗുണിച്ചാൽ R 0 ത്തിന് തുല്യമാണ് അതിനാൽമീൻ സ്ട്രെസ് മാറുമ്പോൾ ക്രാക്ക് ഇനീഷ്യേഷൻ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും മാറുന്നു അതിനാൽ അത് ആശങ്കാജനകമാണ് അതിനാൽ റീജിയൺ 1 മികച്ചതാക്കാൻ നിങ്ങൾക്ക് ഈ നിയമം ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് റീജിയൺ 1 ഉം റീജിയൺ 2 ഉം ഉണ്ട് അതിനാൽ നാച്ചുറൽ എക്സ്റ്റൻഷൻ റീജിയൺ 3 എങ്ങനെ കൈകാര്യം ചെയ്യാനാകും ഫോർമാൻ നിയമം അതിനാൽ ഇത് ഫോർമാൻ നിയമമാണ് ചെയ്യുന്നത് ക്രാക്ക് ഗ്രോത്തിന് നിങ്ങൾക്കുള്ള നിയമങ്ങളിൽ ഇത് വളരെ ജനപ്രിയമാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് a ബൈ dN ഇക്വൽ ടു C മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ K ഹോൾ പവർ n ഡിവൈഡഡ് ബൈ 1 മൈനസ് RK c മൈനസ് ഡെൽറ്റ K ആണ് അതിനാൽ ഇത് സ്ട്രെസ് റേഷ്യോ R കണക്കാക്കുന്നു കൂടാതെ K c ഫ്രാക്ചർ ടഫ്നെസ്സ് ഉള്ള 3 റീജിയനു ഇത് കാരണമാകുന്നു വാസ്തവത്തിൽ നിങ്ങൾ ലിറ്ററേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ആളുകൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എക്സ്പെക്റ്റഡ് ലൈഫ് നൽകാനും ക്രാക്ക് ഗ്രോത്ത് നൽകാനും ഈ ക്രാക്ക് ഗ്രോത്ത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് NDT ഷെഡ്യൂളുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നാസ്ഗ്രോ അഫ്ഗ്രോ എന്നിങ്ങനെ അറിയപ്പെടുന്നവയുണ്ട് ഈ എല്ലാ കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയറുകളിലും ആളുകൾ ഈ ഫോർമാൻ നിയമത്തിന്റെ വ്യതിയാനം ഒരു അടിസ്ഥാനമായി ഉപയോഗിച്ചു അത്തരം സോഫ്റ്റ്വെയറുകൾക്ക് ഇത് അടിസ്ഥാനമായിത്തീരുന്നു റീജിയൺ 1 റീജിയൺ 2 റീജിയൺ 3 എന്നിവ നമ്മൾ പ്രത്യേകം കണ്ടു എംപിരിക്കൽ ഇക്വഷനിലൂടെ മുഴുവൻ സിഗ്മോയിഡൽ കർവിനെയും മോഡലാക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് കംപ്ലീറ്റ് സിഗ്മോയ്ഡൽ കർവ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റൊരു നിയമം ഉണ്ട് ഇത് എർദോഗനും രത്വാനിയും ചേർന്നാണ് നിർമ്മിച്ചത് അവർക്ക് da ബൈ dN നെ C ഇൻടു 1 പ്ലസ് ബീറ്റാ ഹോൾ പവർ m മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ K മൈനസ് ഡെൽറ്റ K ത്രെഷോൾഡ് ഹോൾ പവർ n ഡിവൈഡഡ് ബൈ K c മൈനസ് 1 പ്ലസ് ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ K കാണുക നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇവയെല്ലാം എംപിരിക്കൽ റിലേഷൻസ് ആണ് അതിനാൽ നിങ്ങൾ നിരവധി മെറ്റീരിയൽ കോൺസ്റ്റന്റ്സ് കണ്ടെത്തണം വളരെ ചെലവേറിയ പരിശോധന ആണ് അതും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ പാരീസ് നിയമം ആവിഷ്കരിക്കുന്നതുവരെ ആളുകൾ LEFM ലേക്ക് ചാടില്ല പാരീസ് നിയമത്തിൽ അവർ കണ്ടെത്തിയതിനാൽ ക്രാക്ക് ഗ്രോത്ത് നിരീക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങളുടെ ചില ഉപയോഗമുണ്ട് അല്ലാത്തപക്ഷം ഫ്രാക്ചർ മെക്കാനിക്സ് എപ്പോൾ ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ സംഭവിക്കുമെന്ന് മാത്രമേ പറയൂ ഇത് ഒരു പ്രധാന വിവരമാണെങ്കിലും ആ വിവരങ്ങൾ മാത്രം പര്യാപ്തമല്ല നിങ്ങൾക്ക് ക്രാക്ക് ഗ്രോത്ത് പ്രവചിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് പോയി ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഉപയോഗിക്കാനുള്ള ശരിയായ മാർഗ്ഗമാണിത് എന്ന് ഡിസൈനർമാർക്ക് തോന്നി അതിനാൽ എനിക്ക് ബീറ്റ ഇക്വൽ ടു K മാക്സ് പ്ലസ് K മിനിമം ഡിവൈഡഡ് ബൈ K മാക്സ് മൈനസ് K മിനിമം നിങ്ങൾക്ക് ഈ ഘടകങ്ങളെല്ലാം ഇതുപോലെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് C ഇൻടു 1 പ്ലസ് ബീറ്റഹോൾ പവർ m മീൻ സ്ട്രെസ്ന് കാരണമാകുന്നു കാരണം ബീറ്റയ്ക്ക് ഇത്തരത്തിലുള്ള റേഷ്യോ ഉണ്ട് ഡെൽറ്റ K മൈനസ് ഡെൽറ്റ K ത്രെഷോൾഡ് ഹോൾ പവർ n ഇത് കുറഞ്ഞ സ്ട്രെസ് ലെവലിൽ പരീക്ഷണാത്മക ഡാറ്റയ്ക്ക് കാരണമാകുന്നു അവസാനമായി ഡെൽറ്റ K യിലേക്ക് K c മൈനസ് 1 പ്ലസ് ബീറ്റ എന്ന പദം ഉയർന്ന സ്ട്രെസ് ലെവലിൽ പരീക്ഷണാത്മക ഡാറ്റയ്ക്ക് കാരണമാകുന്നു എന്നാൽ ഈ നിയമങ്ങൾക്കെല്ലാം അടിസ്ഥാനമെന്താണ് പാരീസ് നിയമമാണ് അടിസ്ഥാനം അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് നൽകേണ്ടത് അവർ എൻവയറോണ്മെന്റ്ൽ എഫക്ട് കംബൈയിൻ ചെയ്തു എങ്കിൽ നിങ്ങൾ da ബൈ dN വേഴ്സസ് ഡെൽറ്റ K എത്തില്ലായിരുന്നു ഇപ്പോൾ ഫ്രാക്ചർ മെക്കാനിക്സ് ലിറ്ററേച്ചറിൽ എല്ലാവർക്കും അറിയാം നിങ്ങളെ da ബൈ dN ഡെൽറ്റ K എന്നിവ ഉപയോഗിച്ച് കളിപ്പിക്കാമെന്ന് തുടർന്ന് അവർ ചേർത്തു നിങ്ങൾ ഡെൽറ്റ K ത്രെഷോൾഡ് ചേർക്കുന്നു നിങ്ങൾ Kc ചേർക്കുന്നു നിങ്ങൾ R ചേർക്കുന്നു അതിനാൽ അടിസ്ഥാനത്തിൽ പാരീസാണ് കേർണൽ നൽകിയത് ഫാറ്റിഗ് ക്രാക്ക് ഗ്രോത്ത് ബാധിക്കുന്ന മീൻ സ്ട്രെസ് അതിനാൽ അദ്ദേഹത്തിന്റെ നിയമം വളരെ പ്രധാനമാണ് നമ്മൾ കാണേണ്ടി വരും ഫാറ്റിഗ് ക്രാക്ക് ഗ്രോത്തിന്റെ മീൻ സ്ട്രെസിന്റെ എഫക്ട് എന്താണ് R സ്ട്രെസ് റേഷ്യോയുടെ നിർവചനം നമ്മൾ ഇതിനകം പരിശോധിച്ചു നിങ്ങൾക്ക് ഒരു ഗ്രാഫ് ഉണ്ട് X ആക്സിസിൽ ഇത് ഡെൽറ്റ K ആണ് Y ആക്സിസിൽ ഇത് da ബൈ dN ആണ് ഇത് R ന്റെ ഒരു പ്രത്യേക വാല്യൂവിനുള്ളതാണ് ഞാൻ കരുതുന്നു R 0 ന് തുല്യമാണെന്ന് R മാറ്റുമ്പോൾ ഗ്രാഫ് എങ്ങനെ മാറുന്നു ഇത് ഇടത്തേക്ക് മാറ്റുന്നു അതിനാൽ K ത്രെഷോൾഡ് കുറയുന്നു ഈ റീജിയണിൽ വലിയ സ്വാധീനമൊന്നുമില്ല ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ചെറുതായി വർദ്ധിക്കുന്നു നിങ്ങളുടെ ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഇത് പ്രതിനിധീകരിക്കുന്നു ഒരു പ്രധാന നിരീക്ഷണംമീൻ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ K ത്രെഷോൾഡ് കുറയുന്നു ക്രാക്ക് ഗ്രോത്തിൽ പ്രകടമായ വർധനയുണ്ട് എന്നാൽ ആ സ്വാധീനം വളരെ ചെറുതാണ് നിങ്ങൾ നോക്കേണ്ട രീതി അതാണ് അതിനാൽ മനോഹരമായ ഒരു ചിത്രം നേടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം R ഇതിനകം R കർവല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇത് യഥാർത്ഥത്തിൽ സിഗ്മ മിനിമം ബൈ സിഗ്മ മാക്സ് അല്ലെങ്കിൽ K മിനിമം ബൈ K മാക്സ് R 0 അല്ലെങ്കിൽ R 0 ത്തിൽ കൂടുതലായി നമ്മൾ പ്രവർത്തിക്കുന്നു ഫാറ്റിഗ് ക്രാക്ക് ഗ്രോത്ത് റേറ്റ് കർവിലെ എൻവയറോണ്മെന്റൽ എഫക്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ നോക്കാം എൻവയറോണ്മെന്റ് എങ്ങനെയാണ് സിഗ്മോയ്ഡൽ കർവിനെ പരിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അഗ്ഗ്രസിവ് എൻവയറോണ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഡെൽറ്റ K പരിധി 0 ആണ് ഇത് വളരെ അപകടകരമാണ് ഒരു നോർമൽ എൻവയറോണ്മെന്റിൽ നിങ്ങൾക്ക് ഡെൽറ്റ K ത്രെഷോൾഡ്ന്റെ ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കാം അഗ്ഗ്രസിവ് എൻവയറോണ്മെന്റിൽ ഇത് 0 ആകാം കൂടാതെ ക്രാക്ക് ഗ്രോത്ത് ഫേസിൽ പോലും ക്രാക്ക് ഗ്രോത്ത് റേറ്റിൽ ഗണ്യമായ വർധനയുണ്ട് അതാണ് റീജിയൺ 2 ഉം നിങ്ങൾക്ക് ഉയർന്ന ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഒരു പ്രത്യേകതരം പരിതസ്ഥിതിക്കായി ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് കാണുന്നു ഗ്രാഫ് B യുടെ കാര്യത്തിൽ സ്ട്രെസ് കോറോഷനു കാരണമാകുന്ന ലിക്വിഡ് എൻവയറോണ്മെന്റ്ൽ ഇത് നിരീക്ഷിക്കപ്പെടുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡെൽറ്റ കെ ത്രെഷോൾഡ് 0 ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർമീഡിയറ്റ് ഘട്ടത്തിൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ൽ പെട്ടെന്നുള്ള വർദ്ധനവ് കാണപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ലിക്വിഡ് എൻവയറോണ്മെന്റ് ഉള്ള സാഹചര്യങ്ങളിൽ സ്ട്രെസ് കോറോഷന് കാരണമാകുന്നു അതിനാൽ ഗ്രാഫ് വ്യത്യസ്തമാണ് പാരീസ് നൽകിയ മോഡൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും ലളിതമായ ഒന്നാണ് ഈ ഗ്രാഫ് ഇവയെല്ലാം അതിന്റെ തിരുത്തലുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വളരെ രേഖീയമല്ലാത്തതാണ് നിങ്ങൾക്കറിയാമോ ഇതിനായി ആരെങ്കിലും ഒരു നിയമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് മറുവശത്ത് പാരീസിന്റെ കാര്യത്തിൽ ഒരു നേർരേഖ ഭാഗമുണ്ട് അതിനുശേഷം പ്രാരംഭ തുടക്കത്തിൽ ഒരു കർവും അവസാനം ഒരു കർവുണ്ട് കൂടാതെ രണ്ട് സാഹചര്യങ്ങളും കൂടി ഞങ്ങൾ കാണും ഇത് മറ്റൊരു അഗ്ഗ്രസിവ് എൻവയറോണ്മെന്റ് ഫേയിസണ് ഡെൽറ്റ K ത്രെഷോൾഡ് പരിഷ്ക്കരിച്ചിട്ടില്ല എന്നാൽ ക്രാക്ക് ഗ്രോത്ത് വർദ്ധിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വാതക അന്തരീക്ഷമുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നു സാധാരണയായി ഹൈഡ്രജൻ സങ്കീർണതയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സംഭവിക്കുന്നു നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് ത്രെഷോൾഡിന് സമീപം ഒഴികെ ക്രാക്ക് ഗ്രോത്ത് റേറ്റ്റിന്റെ മൊത്തത്തിലുള്ള വർദ്ധനവ് ഉണ്ട് നിങ്ങൾക്ക് മറ്റൊരു കേസ് ഉണ്ട് അത് വളരെ രസകരമാണ് നോക്കൂ ഡെൽറ്റ K ത്രെഷോൾഡ് മാറ്റാത്തതോ ഡെൽറ്റ K ത്രെഷോൾഡ് 0 ആകുന്നതോ ആയ കേസുകൾ ഞങ്ങൾ കണ്ടു ഡെൽറ്റ K ത്രെഷോൾഡ് മുകളിലേക്ക് ഉയർത്തുന്ന രസകരമായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള സാഹചര്യം ഈ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഉയർന്ന ക്രാക്ക് ഗ്രോത്ത് റേറ്റ് ഉണ്ട് കോറോഷൻ പ്രോഡക്ട് ക്രാക്ക് ക്ലോഷറിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു അങ്ങനെ ഡെൽറ്റ K ത്രെഷോൾഡ് ഉയർത്തുന്നു ക്രാക്ക് ക്ലോഷറിന് നമ്മൾ മതിയായ സമയം ചെലവഴിക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെൽറ്റ K ത്രെഷോൾഡ് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ ക്രാക്ക് ഗ്രോത്ത് ഡാറ്റയുടെ കാര്യത്തിൽ ആളുകൾ ഈ വ്യതിയാനങ്ങൾ കണ്ടെത്തി അതിനാൽ പാരിസ് എൻവയറോണ്മെന്റ്നെ പരിഗണിച്ചില്ല തികച്ചും അനുഭവസമ്പന്നമായ വളരെ മനോഹരമായ ഒരു നിയമം വികസിപ്പിച്ചു പിന്നീട് ആളുകൾ ഡെൽറ്റ K ത്രെഷോൾഡിലും ഫ്രാക്ചർ ടഫ്നെസ്സിലും മാറ്റം വരുത്തി അതിനാൽ ഈ ക്ലാസ്സിൽ അടിസ്ഥാനപരമായി നമ്മൾ നോക്കി എന്താണ് പാരീസ് നിയമം ഇത് യഥാർത്ഥത്തിൽ ഒരു ബോയിംഗ് സാങ്കേതിക കുറിപ്പായി റിപ്പോർട്ടുചെയ്തു തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല ഡഗ്ഡെയ്ലിന് സംഭവിച്ചത് ഇതാണ് അദ്ദേഹം പരീക്ഷണ ഫലം നൽകാത്തതിനാൽ ആളുകൾ അത് വിശ്വസിച്ചില്ല ഹാനും റോസെൻഫീൽഡും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തുകയും പരീക്ഷണാത്മക രീതികൾ പ്രകടിപ്പിക്കുകയും വേണം ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി SIF ന് മാറ്റാൻ കഴിയുന്ന രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ ആളുകൾ ഇത് ചെയ്ത പരീക്ഷണങ്ങളിൽ നിങ്ങൾ കണ്ടെത്തുന്നു ഒരു സാഹചര്യത്തിൽ ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി SIF കുറയുന്നു മറ്റൊരു സാഹചര്യത്തിൽ ക്രാക്ക് ലെങ്തിന്റെ പ്രവർത്തനമായി SIF വർദ്ധിക്കുന്നു രണ്ട് സാഹചര്യങ്ങളിലും da ബൈ dN ഡെൽറ്റ K എന്നിവയ്ക്കിടയിലുള്ള ഗ്രാഫ് അർത്ഥവത്തായിരുന്നു അതിനാൽ സ്ഥാപിതമായ പാരീസ് നിയമം സ്വീകാര്യമാണ് പിന്നെ നമ്മൾ സിഗ്മോയ്ഡൽ കർവും കണ്ടു നമ്മൾ വിവിധ റീജിയൺ കണ്ടു ഓരോ പ്രദേശവും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും ക്രാക്ക് ഓർഗനൈസേഷനിൽ മൈക്രോ ഘടന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഭൌതിക ശാസ്ത്രജ്ഞരുടെ ഡൊമെയ്ൻ ഇതാണ് ക്രാക്ക് ഓർഗനൈസേഷൻ വൈകുന്ന പുതിയ മെറ്റീരിയലുകളുമായി അവ ശരിക്കും വരുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്ന് ഇത് വളരെ പ്രയോജനകരമാണ്